അവസാനമായി നമുക്ക് ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് കിട്ടി Axb അത് നമ്മൾ സോൾവ് ചെയ്തു ദൂരെയുള്ള ഫീൽഡ് കണ്ടുപിടിക്കുക എന്നതാണ് ഇനിയുള്ള പ്രശ്നം ഒരിക്കൽ കൂടി ഇവിടെ ഒരു സ്കീമാറ്റിക് നൽകാം ഇതാണ് എന്റെ എയർക്രാഫ്റ്റ് ഇത് എന്റെ കമ്പ്യൂട്ടേഷണൽ ഡോമെയിൻ ആണെന്ന് കരുതുക ഇവിടെയുള്ള റഡാർ ഫീൽഡ് ഇത് ഇല്ലാതാക്കുന്നു ഇവിടെ ഉള്ള ഫീൽഡ് എന്താണെന്ന് എനിക്ക് കണ്ട് പിടിക്കണം ദൂരെ ഉള്ള ഫീൽഡ് നിർണ്ണയിക്കാൻ ഇവിടെ എന്ത് തന്ത്രം ഉപയോഗിക്കണമെന്നാണ് നിങ്ങൾ കരുതുന്നത് റിസീവർ ലേക്ക് എത്താൻ ഞാൻ എന്റെ കമ്പ്യൂട്ടേഷണൽ ഡോമെയിൻ വികസിപ്പിക്കണോ അത് അത്യാവശ്യം ആണോ പകരം ഞാൻ എന്ത് ചെയ്യണം വിദ്യാർത്ഥി ഇൻസിഡന്റ് വേവ് ഇൻസിഡന്റ് വേവ് എന്നത് ചില വേവ് ആണ് അത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് ദൂരെ ഉള്ള ഫീൽഡ് കണ്ടുപിടിക്കണം ഞാൻ ഇതുവരെ കണ്ടെത്തിയത് ഇതാണ് ഞാൻ Aub സോൾവ് ചെയ്തു ഇതാണ് എന്റെ കമ്പ്യൂറ്ട്ടേഷണൽ ഡോമെയിൻ അവിടെ എല്ലായിടത്തും ത്രികോണങ്ങൾ ഉണ്ടെന്ന് അറിയാമല്ലോ കണക്ക്കൂട്ടലിന്റെ അവസാനം എനിക്ക് എന്താണ് കിട്ടിയത് ഞാൻ എന്താണ് ഉപയോഗിച്ചത് ഡോമെയിൻ ന്റെ ഉള്ളിൽ എല്ലായിടത്തും ഉള്ള ഫീൽഡ് എനിക്ക് അറിയാം പക്ഷെ എനിക്ക് ഇപ്പോൾ ദൂരെ ഉള്ള ഫീൽഡ് കണ്ട് പിടിക്കണം ഞാൻ എന്ത് ചെയ്യും വിദ്യാർത്ഥി നമുക്ക് എല്ലാം ആ വഴിയിൽ ചെയ്യാമോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ദൂരെ എവിടെ എങ്കിലും ഫീൽഡ് വേണമെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും ഇതിനെ ഉൾകൊള്ളിച്ചു കൊണ്ട് ഈ ഡോമെയിൻ വിപുലീകരിക്കണം ഇത് ഒരു ബ്രൂട്ട് ഫോഴ്സ് രീതിയാണ് ഇത് ചെയ്യുന്നതിനുള്ള മികച്ച ഒരു ഒരു മാർഗം ആണോ അത് വിദ്യാർത്ഥി കാരണം ആ മാർഗത്തിൽ എല്ലാം ഷേഡ് ചെയ്തിട്ടുണ്ടായിരിക്കും ബ്രൂട്ട് ഫോഴ്സ് രീതി ഒരു മാർഗം ആണ് എനിക്ക് റഡാർ ക്രോസ്സ് സെക്ഷൻ കണ്ട് പിടിക്കണം എന്ന് വിചാരിക്കുക അതായത് എന്റെ ഒബ്സെർവർ എവിടെയാണ് ഇൻഫിനിറ്റി എനിക്ക് വളരെ അധികം മെഷ് ചെയ്യാൻ സാധിക്കുമോ ഈ കോഴ്സ് ന്റെ തുടക്കത്തിൽ എന്താണ് നമ്മൾ ഹ്യൂജെൻസ് പ്രിൻസിപ്പിൾ നെ കുറിച്ച് പറഞ്ഞത് എന്താണ് ഹ്യൂജൻസ്പ്രിൻസിപ്പിൾ നിങ്ങളോട് പറയുന്നത് തികഞ്ഞ നിയന്ത്രണത്തിൽ ടാൻജെൻഷിയൽ ഫീൽഡ്എങ്ങനെ പ്രവർത്തിക്കും എന്ന് എനിക്ക് അറിയാമെങ്കിൽ രണ്ടാമതായി സോഴ്സുകളും എനിക്ക് അതിനെപ്രൊപോഗേറ്റ് ചെയ്ത് എല്ലായിടത്തും ഫീൽഡ് കണ്ടുപിടിക്കാമായിരുന്നു ഈ പ്രിൻസിപ്പിൾ ഇവിടെ എങ്ങനെ ആണ് പ്രയോഗിക്കുന്നത് ക്ലോസ് കോൺഡറിൽ എനിക്ക് ഫീൽഡ്സ് അറിയാൻ പറ്റുമോ അതായത് ഉദാഹരണം ആയി ക്ലോസിങ് ഒബ്ജെക്റ്റിൽ ഈ ബൌണ്ടറി തന്നെ ക്ലോസ്ഡ് ബൌണ്ടറി ആണ് ഈ ബൌണ്ടറി എനിക്ക് ഉപയോഗിക്കാം അവിടെ ഉള്ള ഫീൽഡ്സ് ഞാൻ കാൽക്യൂലേറ്റ് ചെയ്തിട്ടുണ്ട് ഹ്യൂജെൻസ് പ്രിൻസിപ്പിൾ പ്രയോഗിക്കാൻ എനിക്ക് അത് ഉപയോഗിക്കാം എന്നിട്ട് എവിടെ എങ്കിലും ഫീൽഡ് കണ്ടെത്താൻ കഴിയും ബൌണ്ടറി കണ്ടിഷൻസ് നെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിരുന്നു ഒരു ഉദാഹരണം കാണുകയും ചെയ്തു അതായത് റേഡിയേഷൻ ബൌണ്ടറി കണ്ടിഷൻ നമ്മൾ അത് കൃത്യമായി ഉപയോഗിക്കുകയും ചെയ്തു ബൌണ്ടറി യോട് അടുത്ത് വരുന്തോറും ബൌണ്ടറി കണ്ടിഷൻസ് ലെ തെറ്റുകൾ കൂടും ഞാൻ കൂടുതൽ അകത്തേക്ക് നീങ്ങുമ്പോൾ അത് മെച്ചപ്പെടും ഞാൻ നിങ്ങൾക്ക് വിവരങ്ങൾ നൽകുന്നു എന്ന് മാത്രം ശരിക്കും അത് നമ്മൾ കാൽക്യൂലേറ്റ് ചെയ്യില്ല അതിനാൽ എന്താണ് നല്ലത്നിങ്ങൾ നിങ്ങളുടെ മെഷിൽ തന്നെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് പോലെ എഡ്ജസ് ന്റെ നല്ല ഒരു സെറ്റ് ഉണ്ടാവും അത് ബൌണ്ടറി നിർവ്വചിക്കും നിങ്ങൾ നിർവ്വചിക്കുന്നതിന് പകരം CAD സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അതിനു ചുറ്റും മെഷ് ചെയ്യുമ്പോൾ മെഷിങ് സോഫ്റ്റ്വെയർ എന്താണ് ചെയ്യുന്നത് അത് ആ എഡ്ജ് നെ പരിഗണിക്കുമോ അത് നിങ്ങൾക്ക് നല്ല മിനുസം ഉള്ള എഡ്ജുകളുടെ സെറ്റ് കിട്ടുന്ന വിധത്തിൽ ത്രികോണങ്ങളെ വിന്യസിപ്പിക്കും അതിനാൽ അവിടെ ഉണ്ടാവും അവയുടെ ഉപയോഗം എന്ത് തന്നെ ആയാലും അത് ഇവിടെ ഈ കോണ്ടറിൽ ഉണ്ടാവും ഇപ്പോൾ നിങ്ങൾക്ക് ആ പോയ്ന്റ്സ് ലെ ഫീൽഡ് അറിയാം അത്കൊണ്ട് ബ്രൂട്ട് ഫോഴ്സ് എന്നത് ഒരു മോശം ആശയം ആണ് അതിന് പകരം നമുക്ക് ഹ്യൂജൻസ് പ്രിൻസിപ്പിൾ ചെയ്യാം നമ്മൾ പലതവണ ഫീൽഡ് കാൽക്യൂലേറ്റ് ചെയ്ത എക്സ്പ്രഷൻ ആണ് ഇത് r ഹ്യൂജൻസ് പ്രിൻസിപ്പിൾ അനുസരിച്ചു ആയിരിക്കും സ്കാറ്റെർഡ്ആണ് അത് തന്നെയാണ് എനിക്ക് വേണ്ടത് എന്താണ് ആ ഇന്റഗ്രൽ അത് കോണ്ടർ ഇന്റഗ്രൽ ആണ് ഇതിനെ നമുക്ക് കോണ്ടർ R എന്ന് വിളിക്കാം ഇവിടെ വരുന്ന ടെർമ്സ് എന്തൊക്കെയാണ് വിദ്യാർത്ഥി 0 യിൽ ഇത് സ്കാറ്റെർഡ് മാത്രം ആണ് അത്കൊണ്ട് ഇത് നീക്കം ചെയ്യണം ഞാൻ സ്കാറ്റെർഡ് ഫീൽഡ് മാത്രം ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇത് g യും ഉം ആയി മാറും അവയാണ് 2 ടെർമ്സ് വിദ്യാർത്ഥി ശരിയാണ് അതിനാൽ ആദ്യത്തേത് ഇങ്ങനെ ആവും നമുക്ക് dl പ്രൈമ് എന്ന് വിളിക്കാം ഇതാണ് എന്റെ കോണ്ടർ നമ്മൾ ഇപ്പഴും പോളറൈസേഷനിൽ ആണ് ഉള്ളത് അത്കൊണ്ടാണ് ഞാൻ ഇത് എന്ന് എഴുതിയത് എനിക്ക് ഗ്രീൻസ് ഫങ്ക്ഷൻ Greens function അറിയാമോ എന്നതാണ് ചോദ്യം ഈ കേസിൽ ഒരു തവണ ഞാൻ കോണ്ടർ ഇതായിട്ട് എടുത്തു പുറകിലോട്ട് പോയി ഗ്രീൻസ് ഫങ്ക്ഷൻ Greens function നെ കുറിച്ചുള്ള ചർച്ച ഓർക്കുക ഹ്യൂജെൻസ് പ്രിൻസിപ്പിൾHaugens principleൽ ഔട്ട്സൈഡ് റീജിയൻ ലെ ഫീൽഡ് കണ്ട് പിടിക്കാൻ ഞാൻ സ്പേസ് നെ രണ്ട് വോളിയസ് ആയി വിഭജിച്ചു ഉം ഉം ഏത് ഗ്രീൻസ് ഫങ്ക്ഷൻ ആണ് എനിക്ക് വേണ്ടത് ഔട്ട്സൈഡ് റീജിയൻ ആണോ ഇൻസൈഡ് റീജിയൻ ആണോ ഔട്ട്സൈഡ് റീജിയൻ ഈ കേസിൽ എന്താണ് ഔട്ട്സൈഡ് റീജിയൻ ഫ്രീ സ്പേസ് അതിനാൽ എനിക്ക് ഈ g അറിയാം അത് എന്റെ ഹാങ്കെൽ ആണ് ഇതിൽ നല്ല കാര്യം എന്താണ് എന്ന് വെച്ചാൽ എനിക്ക് ഹാങ്കെൽ ഫങ്ക്ഷൻ അറിയാം എനിക്ക് എല്ലാ സ്റ്റാൻഡേർഡ് അപ്രോക്സിമാഷൻസും ചെയ്യാൻ പറ്റും അത് ഞാൻ നിങ്ങളുടെ ഹാങ്കെൽ ഫങ്ക്ഷൻസിനു വേണ്ടി ചെയ്തിട്ടുണ്ട് ന് നമ്മൾ ഇങ്ങനെ അപ്രോക്സിമേറ്റ് ചെയ്തിരിക്കുന്നു ഈ എല്ലാ അപ്രോക്സിമാഷൻസും നമുക്ക് ഇതിന്റെ ഉള്ളിൽ പകരം വെക്കാൻ പറ്റും അവസാനമായി ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ആയിട്ട് ഈ എക്സ്പ്രഷൻ ൽ നമുക്ക് എല്ലാം അറിയാൻ കഴിയുമോ നമ്മൾ എല്ലാം കാൽക്യൂലേറ്റ് ചെയ്തോ നമുക്ക് പടി പടി ആയി നോക്കാം കോപ്പി പേസ്റ്റ്അഥവാ RHS ൽ നിന്ന് തുടങ്ങാം നമുക്ക് ഇത് കുറച്ചൂടെ ലളിതം ആക്കാം ഇത് പോളറൈസേഷൻ ആണ് അതായത് ഇവയാണ് വാരിയബിൾസ് എനിക്ക് ഈ ടെർമ് അറിയാമോ വിദ്യാർത്ഥി അത് H ടാൻജൻഷിയൽ ആണ് ഇത് നോട് പ്രൊപോർഷണൽ ആണെന്ന് നമ്മൾ കണ്ടു ഞാൻ കാൽക്യൂലേറ്റ് ചെയ്തിട്ടുണ്ടോ ശരിക്കും അതാണ് പ്രോബ്ലം ത്തിലെ എന്റെ വാരിയബിൾ അവയാണ് ടാൻജൻഷിയൽ എഡ്ജസ് അത് എഡ്ജ് ബേസ്ഡ് FEM നെ കുറിച്ചുള്ള നല്ല ഒരു കാര്യം ആണ് ഞാൻ നേരിട്ട് മനസ്സിലാക്കിയ കാര്യം ആണിത് അത് കൊണ്ട് എനിക്ക് ഇത് അറിയാം ഇതിനെ കുറിച്ച് എന്താണ് എനിക്ക് ഇതിനെ അറിയാമോ വിദ്യാർത്ഥി മാക്സ്വെൽസ് Maxwells എനിക്ക് ഇത് അറിയില്ല പക്ഷെ എനിക്ക് ഇത് കാൽക്യൂലേറ്റ് ചെയ്യാൻ പറ്റുമോ വിദ്യാർത്ഥി മാക്സ്വെൽസ്Maxwells മാക്സ്വെൽസ് ഇക്വേഷൻസ്Maxwells equation അതായത് എടുക്കുമ്പോൾ എനിക്ക് കിട്ടും ഇപ്പോൾ എങ്ങനെ ആണ് ഞാൻ എടുക്കുന്നത് എനിക്ക് നമ്പറുകൾ ആയി അറിയാം ഇത് പോലെ അറിയില്ല വിദ്യാർത്ഥി ന്യൂമറിക്കലി ന്യൂമറിക്കലി ശരിയാണ് ഇപ്പോൾ എനിക്ക് ഇതിന് അകത്തുള്ള എല്ലാ കാര്യങ്ങളും അറിയാം അത്കൊണ്ട് ന്യൂമറിക്കലി ഞാൻ ന്യൂമറിക്കൽ എടുക്കണം അത് കൊണ്ടാണ് ഇത് മെഷ് ന് പ്രധാനം ആയത് ന്യൂമറിക്കലി അപ്രോക്സിമാഷൻകൂടുതലോ കുറവോ ശരിയാണ് ഒരിക്കൽ എനിക്ക് ഇത് കിട്ടിയാൽ പിന്നെ എന്റെ ഇഷ്ടപ്പെട്ട എക്സ്പ്രഷൻ RCS ന് ഉള്ളതാണ് അതെന്താണ് o വിദ്യാർത്ഥി കമ്പ്യൂട്ടിങ് സമയത്ത് r ന് വലിയ സംഖ്യ ആയിരിക്കുമോ ഇടുന്നത് അഥവാ നിങ്ങൾ r ന് വലിയ സംഖ്യ ആണോ ഇടുന്നത് മുമ്പത്തെ ഒരു അസൈൻമെന്റ് ന്റെ ഒരു ഭാഗം ആയിരുന്നു ഇത് നിങ്ങൾ ഈ എക്സ്പ്രഷൻ കാൽക്യൂലേറ്റ് ചെയ്താൽ ഇത് r ൽ നിന്ന് സ്വതന്ത്രം ആയി മാറും അത് കൊണ്ട് r ന് വലിയ സംഖ്യ ആണോ ഇടുന്നത് എന്നത് ഒരു വിഷയം അല്ല നിങ്ങൾക്ക് ഒന്നും ഇടേണ്ട ആവശ്യം ഇല്ല RCS നുള്ള ഈ എക്സ്പ്രഷൻ r ൽ നിന്ന് സ്വതന്ത്രം ആയി മാറും ഇത് നെ മാത്രം ആശ്രയിച്ചിരിക്കും വിദ്യാർത്ഥി അവ നിങ്ങളുടെ g യോട് സമാനമാണോ അതെ ഹ്യൂജെൻസ് പ്രിൻസിപിളിൽ നമുക്ക് ഉണ്ട് പക്ഷെ അപ്പോൾ നിങ്ങൾ ഈ അപ്രോക്സിമാഷൻസ് ഉപയോഗിക്കണം ഇത് ഉപയോഗിക്കുമ്പോൾ r ന്റെ ആ മൂല്യം ദുർബലപ്പെടും അപ്പോൾ ഒന്നും പകരം വെക്കേണ്ട ആവശ്യം വരില്ല നിങ്ങൾ എന്തെങ്കിലും പകരം വെച്ചാൽ അവിടെ തെറ്റ് വരും വിദ്യാർത്ഥി നമുക്ക് ആ കേൾ എടുക്കാൻ പറ്റുമോ അതാണ് ശരിക്കും നമ്മൾ ചെയ്യാൻ പോവുന്നത് വിദ്യാർത്ഥി പക്ഷെ നിങ്ങൾ ന്യൂമറിക്കൽ എന്നാണല്ലോ പറഞ്ഞത് ഇവിടെ ന്യൂമറിക്കൽ കേൾ കൊണ്ട് എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് Us ന്റെ ടെർമ്സിൽ ആണ് s ഉം ഉം x ന്റെയും y ന്റെയും ടെർമ്സിൽ ആണ് വിദ്യാർത്ഥി അതെ എനിക്ക് ഇപ്പോൾ അതിന് ചില എക്സ്പ്രഷൻസ് കിട്ടും ഇത് ഒരു എഡ്ജ് ആണ് ഇത് ഒരു ത്രികോണംഇത് വേറൊരു ത്രികോണം ഇപ്പോൾ നമ്മളിൽ ഉള്ള വിറ്റ്നി ബേസിസ് ഫങ്ക്ഷൻസ് നോക്കുകയാണെങ്കിൽ കാൽക്യൂലേറ്റ് ചെയ്താൽ അവസാനം ഒരു കോൺസ്റ്റന്റ്കിട്ടും ന്റെ ഫോം കാരണം അതായത് നിങ്ങൾക്ക് ഇവിടെ കോൺസ്റ്റന്റ് കിട്ടും അവിടെ വേറൊരു കോൺസ്റ്റന്റും ബേസിസ് ഫങ്ക്ഷനിൽ തുടർച്ചയല്ല ഇത് ബേസിസ് ഫങ്ക്ഷൻ ന്റെ ഒരു പോരായ്മ ആണ് അപ്പോൾ കേൾ കണ്ട് പിടിക്കുകയാണ് ശരിക്കും ചെയ്യേണ്ടത് കേൾ കണ്ട് പിടിച്ചു അതിന്റെ ആവറേജ് എടുക്കുക ന്യൂമറിക്കലി കണ്ടുപിടിക്കുക എന്നത് കൊണ്ട് ഞാൻ ഇതാണ് ഉദ്ദേഷിച്ചത് അവസാനം പ്ലേനിൽ എല്ലായിടത്തും ന്റെ ലളിതമായ ഫങ്ക്ഷൻസ് ഉണ്ടാവും അത് നല്ല ഒരു പോയിന്റ് ആണ് ഈ ബേസിസ് ഫങ്ക്ഷൻസ്ന്റെ മറ്റൊരു രസകരമായ കാര്യവും ആണിത് നിങ്ങൾ ഇത് ചെയ്താൽ നിങ്ങൾക്ക് സീറോ കിട്ടും അതിൽ ഏതെങ്കിലും ഒന്ന് എടുത്താൽ ബേസിസ് ഫങ്ക്ഷന് ഈ പ്രോപ്പർട്ടീസ്ഉണ്ടാവും കോൺസ്റ്റന്റ് ആയിരിക്കും